നമുക്ക് ഇത് ഗണിതത്തിന്റെ ഭാഷയിൽ നൽകാം നമുക്ക് ഇപ്പോൾ ലീനിയർ ആൾജിബ്ര ആവശ്യമാണ് അതിനാൽ ലീനിയർ ആൾജിബ്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ഇവിടെ പ്രവർത്തിക്കും അതിനാൽ നമുക്ക് മുകളിൽ നിന്ന് ആരംഭിക്കാം നിങ്ങളിൽ ലീനിയർ ആൾജിബ്ര ചെയ്തവർ ഒരു ഓപ്പറേറ്റർക്ക് വ്യത്യസ്തതയോ സംയോജനമോ ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റർ ആണെന്ന് അവർക്കറിയാം വിദ്യാർത്ഥി ലീനിയർ ഓപ്പറേറ്റർ ഇത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് അതിനാൽ ലീനിയർ ആൾജിബ്രയിൽ അടിസ്ഥാന കോഴ്സ് പഠിച്ച ആർക്കും ഓപ്പറേറ്റർ ഒരു ലീനിയർ ഓപ്പറേറ്ററാണെന്ന് അറിയാം നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഓപ്പറേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട് ∇2 k2 ഡിഫറൻഷ്യേഷൻ ഓപ്പറേറ്റർമാരുണ്ട് പിന്നെ ഇന്റഗ്രേഷനിൽ പോയപ്പോൾ അതിനകത്ത് ഒരു അവിഭാജ്യ ചിഹ്നം ഉണ്ടായിരുന്നു അതിനാൽ അവിടെ വേർതിരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സംയോജനമുണ്ട് എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ശരിയാണ് അതിനാൽ കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്പറേറ്റർ ലീനിയർ ഓപ്പറേറ്റർമാരാണ് ലീനിയർ ഓപ്പറേറ്റർമാരെക്കുറിച്ച് നമുക്ക് ലീനിയർ ആൾജിബ്രടെ ഭാഷയിൽ സംസാരിക്കാം എന്നതാണ് വലിയ ആശ്വാസം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മഹത്തായ ലാഭം അതിനാൽ ലീനിയർ ആൾജിബ്രടെ എല്ലാ ഉപകരണങ്ങളും ഈ പ്രശ്നങ്ങൾക്ക് ശരി പരിഹരിക്കാൻ പ്രയോഗിക്കാവുന്നതാണ് അതിനാൽ നമ്മുടെ ഓപ്പറേറ്റർ ലീനിയർ ശരിയല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല അതിനാൽ നമുക്ക് ഇവിടെ വളരെ പൊതുവായ ഒരു പ്രശ്നം എടുക്കാം അതിനാൽ ഇവിടെ L ഇത് ϕ യിൽ പ്രവർത്തിക്കുന്ന ചില ഓപ്പറേറ്റർ ആണ് ഒപ്പം f നൽകുന്നു അതിനാൽ f അറിയപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കും എന്നതാണ് സാധാരണ വ്യാഖ്യാനം നമുക്ക് ഈ ψ അല്ലെങ്കിൽ ϕ ഇവിടെ വേണം ഇപ്പോൾ ഒരു ഓപ്പറേറ്ററുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒന്നും വിവേചനാധികാരം കാണിക്കുന്നില്ല അത് ഒരു ഓപ്പറേറ്റർ മാത്രമാണ് അതിനാൽ ഏതെങ്കിലും ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത് ഒരു സ്പെയ്സ് മറ്റൊരു സ്പെയ്സിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണ് അതിനാൽ ϕ ഇവിടെ താമസിക്കുന്നുവെന്നും ഓപ്പറേറ്റർ അത് എടുക്കുന്നുവെന്നും പറയാം ഇതിനെ കുറച്ച് സ്പേസ് V എന്ന് വിളിക്കാം ഇവിടെയുള്ള ഓപ്പറേറ്റർ ഈ L അതിനെ ഇവിടെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു W കുറഞ്ഞത് f ഈ സ്ഥലത്ത് ശരിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ വിവരിക്കുന്നത് ഇവയാണ് അതിനാൽ f ഉം ϕ ഉം ഇവിടെ എഴുതരുത് അതിനാൽ ഒരു സ്പെയ്സ് മറ്റൊരു സ്പെയ്സിലേക്ക് കൊണ്ടുപോകുന്ന ഓപ്പറേറ്ററാണ് ഇവിടെ L അപ്പോൾ ഇടത് വശത്തുള്ള സ്ഥലത്തെ എന്താണ് വിളിക്കുക ഇടതുവശത്തുള്ള ഈ സ്ഥലത്തെ എന്ത് വിളിക്കും അതിനാൽ ഞാൻ ഇതിനെ ഒരു ഡൊമെയ്ൻ എന്ന് വിളിക്കും ഡൊമെയ്ൻ മാപ്പ് ചെയ്യപ്പെടും അതിനാൽ ഇതാണ് ശ്രേണി അതിനാൽ അതിനുള്ള ചിഹ്നമായ ഡൊമെയ്ൻ D ആണ് ശ്രേണി ചിഹ്നം R ശരിയാണ് ഇപ്പോൾ നമ്മൾ വ്യതിരിക്തമായ ലോകത്തേക്ക് പോകുകയാണ് അതിനാൽ ഈ തുടർച്ചയായ ഇടം നമ്മൾ ഇവിടെ V W എന്നിവയെ വേർതിരിച്ചറിയുമ്പോൾ അത് വിവേചനാധികാരം നേടുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു ഫിനിറ്റ് ഡൈമൻഷണൽ വെക്റ്റർ സ്പേസ് ആയി മാറുന്നു അതിനാൽ അത് VN ആയി മാറുന്നു നമുക്ക് അതിനെ വിളിക്കാം അതുപോലെ W ആയി WN ഓകെ അതിനാൽ ഇവ പരിമിതമായ ഡൈമൻഷണൽ വെക്റ്റർ സ്പെയ്സുകളാണ് വെക്റ്റർ സ്പെയ്സിന്റെ സ്വഭാവത്തിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ് വിദ്യാർത്ഥി അടിസ്ഥാന പ്രവർത്തനങ്ങൾ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ശരിയാണ് അതിനാൽ ബേസിസ് ഫംഗ്ഷൻ അതിനാൽ ഇത് ബേസിസ് ഫംഗ്ഷൻ സെറ്റിന്റെ സവിശേഷതയാണ് അതിനാൽ നമുക്ക് അവരെ വിളിക്കാം bn n എന്നത് 1 മുതൽ N വരെ തുല്യമാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ ആവശ്യമില്ല ഈ N വെക്ടറുകൾ ശരിയാണ് ഈ N വെക്ടറുകൾ ഒരു വെക്റ്റർ സ്പെയ്സിനെ വിശേഷിപ്പിക്കും കൂടാതെ ഈ n വെക്ടറുകൾക്ക് വെക്റ്റർ സ്പെയ്സിന്റെ സ്വഭാവം കാണിക്കാൻ ഈ വെക്ടറുകളിൽ എന്താണ് വേണ്ടത് ഒന്നാമതായി അവ രേഖീയമായി സ്വതന്ത്രമായ അവകാശമായിരിക്കണം വിദ്യാർത്ഥി ഓർത്തോഗണൽ ഓർത്തോഗണൽ ആകേണ്ടതില്ല എനിക്ക് ഓർത്തോഗണൽ അല്ലാത്ത അടിസ്ഥാനവും ഉണ്ടായിരിക്കാം അപ്പോൾ വെക്ടറുകളുടെ ഗണത്തെ വെക്ടർ സ്പെയ്സിന്റെ അടിസ്ഥാനം എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് വിദ്യാർത്ഥി വെക്റ്റർ അവ വ്യാപിക്കുന്നു അവർ വെക്റ്റർ സ്പേസ് മുഴുവനും വലതുവശത്ത് വ്യാപിപ്പിക്കണം ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ത്രിമാന സ്പേസ് x വെക്ടറും y വെക്ടറും നൽകിയാൽ അവ രേഖീയമായി സ്വതന്ത്രമാണ് പക്ഷേ അവ ത്രിമാന സ്പേസിൽ വ്യാപിക്കുന്നില്ല അതിനാൽ ഈ വെക്ടറുകൾ ഒരുമിച്ച് വെക്ടർ സ്പെയ്സ് സ്പാൻ ചെയ്യണം അതിനാൽ അടിസ്ഥാനപരമായി ലളിതമായ കാര്യങ്ങൾ എന്ന് വിളിക്കേണ്ട രണ്ട് ആവശ്യകതകൾ ഇവയാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഇത് ഇതിനകം തന്നെ അറിയാമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പക്ഷേ നമ്മൾ ഔപചാരികമായി ഗണിത ഭാഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഡൊമെയ്നിന് എനിക്ക് ഒരു അടിസ്ഥാനം ആവശ്യമാണ് കൂടാതെ ശ്രേണിയ്ക്കും എനിക്ക് ഒരു അടിസ്ഥാനം ആവശ്യമാണ് അതിനാൽ ഞാൻ b എന്ന ചിഹ്നം നൽകാൻ പോകുന്ന ഡൊമെയ്നിനായുള്ള അടിസ്ഥാന വെക്റ്ററുകളുടെ സെറ്റിനെ വിളിക്കാൻ പോകുന്നു അതിനാൽ bn ശ്രേണിയ്ക്കായി ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു ചിഹ്നം ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ അവരെ tn എന്ന് വിളിക്കാൻ പോകുന്നു അതിനാൽ ഇത് ഓർമ്മിക്കാനുള്ള വഴി പിന്നീട് വരാനിരിക്കുന്നവയാണ് ഡൊമെയ്നിനായി ഞാൻ ഈ അടിസ്ഥാന ഫംഗ്ഷനുകൾ എന്ന് വിളിക്കാൻ പോകുന്നു ശ്രേണിയ്ക്കായി ഞാൻ ഈ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ എന്ന് വിളിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് അക്ഷരങ്ങൾ d t ഈ അക്ഷരങ്ങളോ വാക്കുകളോ എന്തിനാണ് അടിസ്ഥാനവും ടെസ്റ്റിംഗ് എന്ന് പോകുമ്പോൾ വ്യക്തമാകും ഈ സമവാക്യം പരിഹരിക്കുന്നതിന് ഞാൻ ഇവിടെയുള്ള യഥാർത്ഥ സമവാക്യത്തിലേക്ക് മടങ്ങുകയും ഈ അവകാശത്തിന് എനിക്ക് ഒരു പരിഹാരം തരൂ എന്ന് പറയുകയും ചെയ്താൽ അതിനാൽ ലീനിയർ ആൾജിബ്രടെ ആരംഭം തന്നെ ഈ സമവാക്യം പരിഹരിക്കാൻ നിങ്ങൾക്ക് f ൽ എന്ത് വ്യവസ്ഥ വേണം വിദ്യാർത്ഥി അത് പരിധിയിലായിരിക്കണം പരിധി അതിനാൽ എനിക്ക് ഈ സമവാക്യം പരിഹരിക്കാൻ കഴിയണമെങ്കിൽ f ഈ പരിധിക്കുള്ളിലായിരിക്കണം അല്ലാത്തപക്ഷം L ഒന്നും മാപ്പ് ചെയ്യാനും എന്നെ ശരിയാക്കാനും വഴിയില്ല അതിനാൽ f എന്നത് L ന്റെ പരിധിയിലായിരിക്കണം അത് വ്യക്തമാണ് പക്ഷേ ഞാൻ അത് എന്തായാലും ശരിയാണെന്ന് പ്രസ്താവിക്കുന്നു അതിനാൽ ഇത് ലീനിയർ ആൾജിബ്രടെ ഒരു ചെറിയ അവലോകനമാണ് അത് നമ്മൾ മൊമെന്റുകളുടെ മുഴുവൻ രീതിയും ലീനിയർ ആൾജിബ്രയിൽ നിന്നുള്ള വളരെ നല്ല ഉപകരണമാണ് അത് അടിസ്ഥാന വെക്റ്ററുകൾ ഉപയോഗിക്കുന്നു കൂടാതെ ആന്തരിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അതിൽ കൂടുതൽ സങ്കീർണ്ണമായ ഒന്നും തന്നെയില്ല ഇത് ഇതുവരെ മികച്ചതാണോ